ന്യൂമാൻ രാജുവിന്റെ എംപിരിക്കൽ ഈക്വേഷൻ തുടരുന്നു അവസാന ക്ലാസ്സിൽ നമ്മൾ ന്യൂമാന്റെയും രാജുവിന്റെയും സൊല്യൂഷൻ ചർച്ചചെയ്യാൻ തുടങ്ങിയിരുന്നു നമുക്ക് ഇത് പൂർണ്ണമാക്കാൻ കഴിഞ്ഞില്ല തുടരുന്നതിനു മുൻപ് അവസാന ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ വേഗത്തിൽ പരിശോധിക്കും 1979 ൽ വിശദമായ സമഗ്രമായ ത്രീ ഡയമെൻഷണൽ ഫൈനൈറ്റ് എലമെന്റ് അനാലിസിസ് നടത്തിയ രാജുവിനെയും ന്യൂമാനെയും ഞാൻ പരാമർശിച്ചു ആ ഫലത്തെ അടിസ്ഥാനമാക്കി 1981 ൽ അവർ ഡബിൾ സീരീസ് പോളിനോമിയലുകൾ അടങ്ങിയ എംപിരിക്കൽ റിലേഷൻ അവതരിപ്പിച്ചു റിലേഷൻ ഇതുപോലെയാണ് ഇത് അവസാന ക്ലാസിൽ നിങ്ങൾ നിർണ്ണയിച്ചിരുന്നു സിഗ്മ ടി എന്നത് ടെൻഷനെ സൂചിപ്പിക്കുന്നു സിഗ്മ ബി എന്നത് ബെൻഡിങ് സ്ട്രെസ് സൂചിപ്പിക്കുന്നു Q എങ്ങനെ കണക്കാക്കാമെന്നും നമ്മൾ പരിശോധിച്ചു ഇത് എ ബൈ സി 1 ൽ കൂടുതലും കുറവും ആകുമ്പോൾ വരുന്ന സമവാക്യം നൽകിയിരിക്കുന്നു നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു എക്സ്പ്രഷൻ ഉപയോഗിച്ച്ഇത് ചെയ്യുകയാണെങ്കിൽ എ ബൈ സി യുടെ എല്ലാ മൂല്യങ്ങൾക്കും പരമാവധി പിശക് 0 13 ശതമാനമാണ് ഈ ഫംഗ്ഷനുകൾ എന്തൊക്കെയാണെന്ന് നോക്കാനായി നമ്മൾ മുന്നോട്ട് പോയി ഇതിന് M 1 M 2 M 3 എന്നീ ഘടകങ്ങളുണ്ട് ഇവയും നിർവചിക്കപ്പെട്ടിട്ടുണ്ട് ഈ സമവാക്യങ്ങളെല്ലാം അവസാന ക്ലാസിൽ നിർണ്ണയിക്കപ്പെട്ടു എഫ് തീറ്റ ജി എഫ് ഡബ്ല്യു എന്നീ ഫംഗ്ഷനുകളും നമ്മൾ പരിശോധിച്ചിട്ടുണ്ട് എച്ച് ഫംഗ്ഷൻ എന്താണ് എന്ന് നോക്കാൻ നമ്മൾ തുടങ്ങി എഞ്ചിനീയറിംഗ് വിധിന്യായത്തിൽ ന്യൂമാനും രാജുവും എച്ച് എന്ന ഫങ്ഷൻ ഈ രൂപത്തിൽ പ്രകടിപ്പിച്ചതായി നിങ്ങൾ ശ്രദ്ധിക്കണം എച്ച് ഈക്വൽ റ്റു എച്ച് 1 പ്ലസ് എച്ച് 2 മൈനസ് എച്ച് 1 സൈൻ പവർ പി തീറ്റ P നെ 0 2 പ്ലസ് എ ബൈ സി പ്ലസ് 0 6ഇന്റു എ ബൈ ബി ആയി നിർവചിച്ചിരിക്കുന്നു എച്ച് 1 1 മൈനസ് 0 34 എ ബൈ ബി മൈനസ് 0 11 എ ബൈ സി ഇന്റു എ ബൈ ബി ആണ് എച്ച് 2 1 പ്ലസ് ജി 1 ഇന്റു എ ബൈ ബി പ്ലസ് ജി 2 എ ബൈ ബി ഹോൾ സ്ക്വയർ ആണ് ഇവിടെ വരെ നമ്മൾ ഇത് അവസാന ക്ലാസിൽ കണ്ടതായി ഞാൻ കരുതുന്നു ജി 1 ജി 2 എന്നീ ഫംഗ്ഷനുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം ഇവ അടുത്തതായി നിർവചിക്കപ്പെടുന്നു ജി 1 ഫംഗ്ഷൻ മൈനസ് 1 22 മൈനസ് 0 12 ഇന്റു എ ബൈ സി എന്ന് നൽകിയിരിക്കുന്നു അപ്പോൾ ജി 2 എന്ന ഫംഗ്ഷൻ 0 55 മൈനസ് 1 05ഇന്റു എ ബൈ സി ഹോൾ പവർ 3 ബൈ 4 പ്ലസ് 0 47 എ ബൈ സി ഹോൾ പവർ 3 ബൈ 2 ആയി നൽകിയിരിക്കുന്നു ഇത് എംപിരിക്കൽ റിലേഷൻ ഉൾക്കൊള്ളുന്ന ഘടകങ്ങളുടെ നിർവചനം പൂർത്തിയാക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാം അദ്ദേഹം ഒരു ത്രീ ഡയമെൻഷണൽ ഫൈനൈറ്റ് എലമെന്റ് അനാലിസിസ് നടത്തിയെന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് എംപിരിക്കൽ റിലേഷൻ ഉണ്ടായിരുന്നു റിലേഷൻ ഇനിപ്പറയുന്നതാണ് KI ഈക്വൽ റ്റു സിഗ്മ ടി പ്ലസ് എച്ച് സിഗ്മ ബി ഇന്റു റൂട്ട് ഓഫ് പൈ എ ഡിവൈഡഡ് ബൈ Q ആണ് എ ബൈ ബി റേഷ്യോ എ ബൈ സി റേഷ്യോ സി ബൈ w റേഷ്യോ തീറ്റ എന്നിവയാൽ നിർണ്ണയിക്കപ്പെടുന്ന ഒരു ഫംഗ്ഷൻ ആണിത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എംപിരിക്കൽ റിലേഷൻ ഫൈനൈറ്റ് എലമെന്റ് അനാലിസിസ് റിസൾട്ടിന്റെ 0 5 ശതമാനം ഉള്ളിലാണെന്ന് ന്യൂമാനും രാജുവും റിപ്പോർട്ടുചെയ്തു എ ബൈ ബി റേഷ്യോ എ ബൈ സി റേഷ്യോ എന്നിവ 0 മുതൽ 1 വരെ ആണ് 2സി ബൈ w റേഷ്യോ 0 5 ൽ കുറവും മാതൃകയുടെ വീതിയും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിന്റെ പങ്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അവ എംപിരിക്കൽ റിലേഷൻ ആയിരുന്നിട്ടും ഈ സമവാക്യങ്ങൾ വിശാലമായ സ്വീകാര്യത നേടിയിട്ടുണ്ട് കൂടാതെ സർഫസ് ഫ്ലോ ഉള്ള ഫ്രാക്ച്ചറുമായി ബന്ധപ്പെട്ട വിവിധ കണക്കുകൂട്ടലുകൾക്കായി അവ ഉപയോഗിക്കുന്നു അതിനാൽ സർഫസ് ഫ്ലോയെക്കുറിച്ചുള്ള പഠനത്തിൽ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും പോയി ന്യൂമാന്റെയും രാജുവിന്റെയും എംപിരിക്കൽ റിലേഷൻ നോക്കാനും നിങ്ങളുടെ കണക്കുകൂട്ടലുകൾക്കായി ഉപയോഗിക്കാനും കഴിയും ഫ്രാക്ചർ കമ്മ്യൂണിറ്റി അവരുടെ ഫലങ്ങളിൽ ആ ആത്മവിശ്വാസം നിലനിർത്തുന്നു പ്രായോഗിക കാഴ്ചപ്പാടിൽ സർഫസ് ക്രാക്ക് വളരെ പ്രധാനമാണെന്ന് നമ്മൾ കണ്ടു നമ്മൾ മൂന്ന് വ്യത്യസ്ത രീതികൾ പരിശോധിച്ചു അതിലൊന്നാണ് ഇർവിന്റെ വളരെ ലളിതമായ സമീപനം ഒരു ഫ്രണ്ട് ഫ്രീ സർഫസ് കറക്ഷൻ ഘടകം ഉണ്ടായിരുന്നു പ്ലാസ്റ്റിക് സോണിന്റെ നീളം കാരണം ഉള്ള കറക്ഷൻ ഘടകവും ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഫ്ലോ ഷേപ്പ് പാരാമീറ്ററിന്റെ ഗ്രാഫുകൾ ഉണ്ടായിരുന്നു ടെൻഷനും ബെൻഡിങ്ങിനുമായി ആളുകൾ പ്രത്യേക ഗ്രാഫുകൾ നൽകിയിട്ടുള്ള സർഫസ് ക്രാക്കുകളുടെ നേരിട്ടുള്ള വിശകലനവും നമ്മൾ പരിശോധിച്ചു ഒടുവിൽ ന്യൂമാന്റെയും രാജുവിന്റെയും എംപിരിക്കൽ റിലേഷൻ നമ്മൾ പരിശോധിച്ചു Selection of Fracture Toughness for various types of cracks സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടറുമായും അവയുടെ പങ്കുമായും ഉള്ള റിലേഷൻ ആണ് നമ്മൾ ചർച്ച ചെയ്യേണ്ട മറ്റൊരു പ്രധാന കാര്യം വിവിധ പ്രശ്നങ്ങൾക്ക് നമ്മൾ ഫ്രാക്ച്ചർ ടഫ്നെസ്സ് തിരഞ്ഞെടുക്കുന്ന രീതിയും നിങ്ങൾ നോക്കണം എനിക്ക് ത്രൂ തിക്നെസ്സ് ക്രാക്ക് ഉണ്ടെന്ന് കരുതുക ചർച്ചയുടെ ആവശ്യത്തിനായി ക്രാക്ക് വളരെ മൂർച്ചയുള്ള ഒരു കോർണർ ആയി കാണിക്കുന്നു നിങ്ങൾക്ക് നേരെയുള്ള ക്രാക്ക് ഫ്രണ്ട് ഉണ്ട് ഇതാണ് ഏറ്റവും ലളിതമായ പ്രശ്നം ക്രാക്ക് ടിപ്പ് മേഖലയുടെ സമീപത്തുള്ള ലോക്കലൈസ്ഡ് സ്ട്രെസ് കാരണം മെറ്റീരിയൽ എങ്ങനെ പ്രതികരിക്കുന്നുവെന്ന് നോക്കാം നിങ്ങൾക്ക് വളരെ ഉയർന്ന സ്ട്രെസ് ഉണ്ട് ഇത് നിങ്ങളുടെ ഇലാസ്റ്റിക് സൊല്യൂഷൻ നൽകുന്നു ഈ വളരെ ഉയർന്ന ലോക്കലൈസ്ഡ് സ്ട്രെസ് കണക്കിലെടുക്കുമ്പോൾ എന്ത് സംഭവിക്കും ഈ മേഖലയിൽ സങ്കോചമില്ല ഈ മേഖലയിൽ മെറ്റീരിയൽ ചുരുങ്ങാൻ ആഗ്രഹിക്കുന്നു ഈ സങ്കോചം എത്രത്തോളം സാധ്യമാണെന്ന് നാം കാണേണ്ടതുണ്ട് ഈ സോണിന് മുന്നോടിയായി ചെറിയ സങ്കോചമില്ല ഈ മേഖലയിൽ എന്ത് സംഭവിക്കും അതിനാൽ ഞാൻ ചെയ്യേണ്ടത് ഞാൻ ആനിമേഷൻ ആവർത്തിക്കും നമ്മൾ പ്രതിനിധീകരിച്ച വിവിധ ആശയങ്ങളുടെ ക്രമം നിങ്ങൾക്ക് ഓർക്കാൻ കഴിയും എനിക്ക് ഒരു ക്രാക്ക് ഉള്ള വലിഞ്ഞ ഒരു പ്ലേറ്റ് ഉണ്ട് നിങ്ങൾ വളരെ ഉയർന്ന തലത്തിലുള്ള സ്ട്രെസ് കാണുന്നു പിന്നെ സ്ട്രെസിന്റെ അനന്തരഫലങ്ങൾ കാരണം മെറ്റീരിയൽ ചുരുങ്ങാൻ ആഗ്രഹിക്കുന്നു ഈ മേഖലയിലെ ഒരു സിലിണ്ടർ മെറ്റീരിയൽ നിങ്ങൾ പരിഗണിക്കുന്നു വിവിധ തിക്നെസ്സ് പ്ലേറ്റുകൾക്കായി നമ്മൾ ഈ ഫലങ്ങൾ നേടേണ്ടതുണ്ട് വളരെ നേർത്ത പ്ലേറ്റിൽ എന്ത് സംഭവിക്കും കട്ടിയുള്ള പ്ലേറ്റിൽ എന്ത് സംഭവിക്കും ഇവ നമ്മൾ നോക്കേണ്ട രണ്ട് വൈരുധ്യങ്ങളാണ് നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ശ്രദ്ധിക്കാനാകുന്നത് നിങ്ങൾക്ക് ഒരു സ്ട്രെസ് കോൺസൺട്രേഷൻ സോൺ ഉള്ളപ്പോൾ സാധാരണയായി ഒരു യൂണി ആക്സിയൽ ഫീൽഡ് ബയാക്സിയൽ ഫീൽഡിലേക്ക് മാറുന്നു എന്നാൽ ക്രാക്ക് പ്രശ്നങ്ങളുടെ കാര്യത്തിൽ തിക്നെസ്സ് പ്ലേറ്റുകൾക്കായി നിങ്ങൾ ഒരു വശം കൂടി പരിഗണിക്കേണ്ടതുണ്ട് നമ്മൾ ഇതിനകം കണ്ടു ക്രാക്ക് ടിപ്പ് വളരെ മൂർച്ചയുള്ളതാണ് സിഗ്മ x ഈക്വൽ റ്റു സിഗ്മ y നിങ്ങൾ പരിഗണിക്കുമ്പോൾ ക്രാക്ക് മൂർച്ചയുള്ളതാണെങ്കിൽ ക്രാക്ക് ടിപ്പിൽ നിങ്ങൾക്ക് സിഗ്മ x 0 ആയി ലഭിക്കും ചർച്ചയുടെ ഉദ്ദേശ്യത്തിനായി ക്രാക്ക് ടിപ്പ് മൂർച്ചയുള്ളതാണെന്ന് പരിഗണിക്കാം നിങ്ങൾക്ക് സിഗ്മ xഈക്വൽ റ്റു സിഗ്മ y ഉണ്ട് പ്ലേറ്റ് ആവശ്യത്തിന് തിക്നെസ്സ് ഉള്ളതാണെങ്കിൽ പ്ലേറ്റിന്റെ തിക്നെസ്സ് ദിശയിൽ നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടാകും അത് ന്യൂ ടൈംസ് സിഗ്മ എക്സ് പ്ലസ് സിഗ്മ വൈ ആയി നൽകിയിരിക്കുന്നു നിങ്ങൾ സ്ട്രെയിൻ നോക്കുകയാണെങ്കിൽസ്ട്രെയിൻ 0 ആയിരിക്കും നിങ്ങൾ സ്ട്രെസ് നോക്കുകയാണെങ്കിൽ അത് ന്യൂ ടൈംസ് സിഗ്മ എക്സ് പ്ലസ് സിഗ്മ വൈ ആയിരിക്കും വളരെ ഉയർന്ന ലോക്കലൈസ്ഡ് സ്ട്രെസ് കാരണം നിങ്ങൾക്ക് ക്രാക്ക് ടിപ്പിൽ പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ സംഭവിക്കും അതിനാൽ ക്രാക്ക് ടിപ്പിൽ നമുക്ക് പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ സംഭവിക്കുമ്പോൾ പോയ്സൺ റേഷ്യോ 0 5 ആയി എടുക്കുന്നത് വിവേകപൂർണ്ണമാണ് അതിനാൽ ഒരർത്ഥത്തിൽ തിക്നെസ്സ് പ്ലേറ്റുകളിൽ ക്രാക്കിന്റെ സമീപം നിങ്ങൾക്ക് ട്രയാക്സിയൽ സ്ട്രെസ് ഉണ്ട് ആ മേഖല ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നു ക്രാക്ക് പ്രശ്നങ്ങളുടെ കാര്യത്തിൽ സ്ട്രെസ് കേന്ദ്രീകരണത്തിന് സമീപംഅനുയോജ്യമായ സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് സ്ട്രെസിന്റെ ഒരു ട്രയാക്സിയൽ അവസ്ഥ ഉണ്ടാകാം ഒരു തിക്നെസ്സ് പ്ലേറ്റിനും നേർത്ത പ്ലേറ്റിനും അതാണ് ചിത്രീകരിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഇതിന്റെ ഒരു രേഖാചിത്രം തയ്യാറാക്കാം ഒരു തിക്നെസ്സ് പ്ലേറ്റിൽസർഫസ് ഒഴിച്ചുള്ള സ്ഥലങ്ങളിൽ ഇന്റീരിയർ സ്ട്രെസ് ഒരു ട്രയാക്സിയൽ അവസ്ഥയിലായിരിക്കും ഒരു തിക്നെസ്സ് പ്ലേറ്റിന്റെ കാര്യത്തിൽ വളരെ ചെറിയ സങ്കോചമുണ്ടെന്ന് നിങ്ങൾ കണ്ടെത്തുന്നു ഫ്രാക്ചർ ഇന്സ്റ്റബിലിറ്റി വീക്ഷണകോണിൽ നിന്നു അത്തരം പ്രശ്നങ്ങളിൽ നിങ്ങൾ എന്തുചെയ്യും തിക്നെസ്സ് പ്ലേറ്റിൽ ഒരു ക്രാക്ക് ഉണ്ടാകുമ്പോൾ നിങ്ങൾ സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടർ കണക്കാക്കേണ്ടതുണ്ട് ഫ്രാക്ചർ ഇന്സ്റ്റബിലിറ്റി വീക്ഷണകോണിൽ നിന്ന് നിങ്ങൾ എടുക്കേണ്ട ഫ്രാക്ച്ചർ ടഫ്നെസിന്റെ മൂല്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നിരുന്നാലും ഫ്രാക്ചർ ടഫ്നെസ് ടെസ്റ്റിംഗിനെക്കുറിച്ച് നമുക്ക് ഒരു പ്രത്യേക അധ്യായം ഉണ്ടാകും നിങ്ങൾക്ക് തിക്നെസ്സ് പ്ലേറ്റ് ഉള്ള അത്തരം ഒരു പ്രശ്നത്തിൽ നിങ്ങൾ പ്ലെയിൻ സ്ട്രെയിൻ ഫ്രാക്ചർ ടഫ്നെസ്സ് ഉപയോഗിക്കണം ഞാൻ ഇതിനകം സൂചിപ്പിച്ചു പ്ലെയ്ൻ സ്ട്രെയിൻ ഫ്രാക്ച്ചർ ടഫ്നെസ്സ് പ്ലെയ്ൻ സ്ട്രെസ് ഫ്രാക്ച്ചർ ടഫ്നെസിനേക്കാൾ കുറവാണ് അതിനാൽ സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടർ മൂല്യവും ഫ്രാക്ച്ചർ ടഫ്നെസും തിരഞ്ഞെടുക്കുന്നത് ആത്യന്തികമായി ഫ്രാക്ച്ചർ ഇന്സ്റ്റബിലിറ്റി പ്രതിഭാസത്തെ നിർണ്ണയിക്കുന്നു മറുവശത്ത് ഒരു നേർത്ത പ്ലേറ്റിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു സ്വതന്ത്ര സങ്കോചമുണ്ട് നിങ്ങളുടെ ഫ്രാക്ചർ ഇന്സ്റ്റബിലിറ്റി കണക്കുകൂട്ടലുകൾക്കായി നിങ്ങൾ പ്ലെയിൻ സ്ട്രെസ് ഫ്രാക്ചർ ടഫ്നെസ്സ് ഉപയോഗിക്കേണ്ടതുണ്ട് ത്രൂ തിക്നെസ്സ് ക്രാക്ക് നോക്കിയ ശേഷം നമ്മൾ പോയി ഈ സർഫസ് ക്രാക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാൻ പോകുന്നുവെന്ന് നോക്കേണ്ടതുണ്ട് ഒരു സർഫസ് ക്രാക്ക് കോർണർ ക്രാക്ക് എന്നിവയുടെ കാര്യത്തിൽ എന്ത് സംഭവിക്കും ഇതിന് ഒരു വളഞ്ഞ ക്രാക്ക് ഫ്രണ്ട് ഉണ്ടെന്നും സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടർ വളഞ്ഞ ക്രാക്ക് ഫ്രണ്ടിനൊപ്പം വ്യത്യാസപ്പെടുമെന്നും നമുക്കെല്ലാവർക്കും അറിയാം വളഞ്ഞ ക്രാക്ക് ഫ്രണ്ടിനോട് ചേർന്നുള്ള ഒരു സിലിണ്ടർ മെറ്റീരിയൽ നിങ്ങൾ പരിഗണിക്കുകയാണെങ്കിൽ ആന്തരിക മേഖല സ്ട്രെസിന്റെ ഒരു ട്രയാക്സിയൽ അവസ്ഥ കൈവരിക്കുന്നു നിങ്ങൾക്കറിയാമോ ഇത് ഒരു ഷേഡുള്ള പ്രദേശമായാമാണ് ചിത്രീകരിച്ചിരിക്കുന്നത് അതിനാൽ നിങ്ങൾക്ക് ഒരു ട്രയാക്സിയാലിറ്റി നിയന്ത്രണം ഉണ്ടാകുമ്പോഴെല്ലാം നിങ്ങളുടെ ഇന്സ്റ്റബിലിറ്റി കണക്കുകൂട്ടലുകൾക്കായി നിങ്ങൾ പ്ലെയിൻ സ്ട്രെയിൻ ഫ്രാക്ചർ ടഫ്നെസ്സ് ഉപയോഗിക്കേണ്ടതുണ്ട് പ്ലെയിൻ സ്ട്രെയിൻ ഫ്രാക്ചർ ടഫ്നെസിന്റെ ഉപയോഗം നിങ്ങൾ ചെയ്യേണ്ടിവരുമ്പോൾ സർഫസ് ഫ്ലോ എല്ലായ്പ്പോഴും അപകടകരമാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം കാരണം ഒരു സർഫസ് ഫ്ലോയുടെ സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടറിനെ എല്ലായ്പ്പോഴും ത്രൂ തിക്നെസ്സ് എഡ്ജ് ക്രാക്കിന്റെ മൂല്യവുമായി നിങ്ങൾ താരതമ്യം ചെയ്യുന്നു എന്നാൽ നേർത്ത പ്ലേറ്റിലെ എഡ്ജ് ക്രാക്കിനായി നിങ്ങൾക്ക് ഒരു പ്ലെയിൻ സ്ട്രെസ് ഫ്രാക്ചർ ടഫ്നെസ്സ് ഉപയോഗിക്കാം നിങ്ങൾക്ക് ഒരു സർഫസ് ക്രാക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു പ്ലെയിൻ സ്ട്രെയിൻ ഫ്രാക്ചർ ടഫ്നെസ്സ് ഉപയോഗിക്കണം അതിനാൽ നിങ്ങൾ ഓർമ്മിക്കേണ്ടതിനാൽ സർഫസ് ക്രാക്ക് എല്ലായ്പ്പോഴും അപകടകരമാണ് നോക്കൂ ഇപ്പോൾ നമ്മൾ പലതരം പ്രശ്നങ്ങൾക്കുള്ള സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടർ പരിശോധിച്ചു വ്യത്യസ്ത ക്രാക്ക് സാഹചര്യങ്ങളോട് പ്രതികരിക്കുന്നതിൽ ഒരുതരം തംബ് റൂൾ കണ്ടെത്തുന്നതും നല്ലതാണ് അതിനാൽ നമ്മൾ പോയി ആ ഫലങ്ങൾ അവലോകനം ചെയ്യും അനന്തമായ സ്ട്രിപ്പിൽ തുല്യ അകലത്തിലുള്ള ക്രാക്ക് ഉപയോഗിച്ച് നമ്മൾ ചർച്ച ആരംഭിച്ചു ഇതിൽ നിന്ന് നിങ്ങൾക്ക് സെന്റർ ക്രാക്ക് മാതൃക ലഭിക്കുമെന്ന് നമ്മൾ ചർച്ച ചെയ്തിരുന്നു ഈ സൊല്യൂഷനിൽ നിന്ന് സിംഗിൾ എഡ്ജ് നോച്ച്ഡ് സ്പെസിമെൻഡബിൾ എഡ്ജ് നോച്ച്ഡ് സ്പെസിമെൻ അല്ലെങ്കിൽ ക്രാക്ക് സ്പെസിമെൻ എന്നിവയും നിങ്ങൾക്ക് ലഭിക്കും വിവിധ ക്രാക്കുകൾക്കുള്ള SIF ന്റെ സ്ഥിതിവിവരക്കണക്കുകൾ നിങ്ങൾക്ക് ഒരു സെന്റർ ക്രാക്ക് ഉള്ളപ്പോൾ നമ്മൾ അനന്തമായ പ്ലേറ്റിൽ നോക്കി ഇത് KI ഈക്വൽ റ്റുസിഗ്മ റൂട്ട് പൈ എ ആണ് ഒരു ഫൈനൈറ്റ് പ്ലേറ്റിനായി നിങ്ങൾക്ക് എ ബൈ w ന്റെ ഫങ്ഷൻ ഉണ്ടാകും ഫലം എങ്ങനെ റിപ്പോർട്ടുചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ച് ഇത് എ ബൈ w അല്ലെങ്കിൽ 2a ബൈ w ആയിരിക്കാം നിങ്ങൾ ഒരു എഡ്ജ് ക്രാക്കിലേക്ക് പോകുന്ന നിമിഷം ചർച്ചയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി എഡ്ജ് ക്രാക്കിന് ഒരു സെന്റർ ക്രാക്കിനേക്കാൾ ഉയർന്ന സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടർ ഉണ്ട് നമുക്ക് 1 12 എന്ന ഘടകം ഉണ്ടായിരുന്നു അനന്തമായ ഒരു പ്ലേറ്റിന് ഇത് ഇങ്ങനെയായിരിക്കും ഒരു ഫൈനൈറ്റ് പ്ലേറ്റിനായി ഫലം എങ്ങനെ റിപ്പോർട്ടുചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ച് നിങ്ങൾക്ക് എ ബൈ w അല്ലെങ്കിൽ 2 എ ബൈ w എന്നിവയുമായി ബന്ധപ്പെട്ട ഒരു ഫംഗ്ഷൻ ഉണ്ടാകും മറുവശത്ത് എനിക്ക് എംബെഡഡ് സർക്കുലർ ഫ്ലോ ഉള്ളപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചത് എന്താണ് സ്ട്രെസ് സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടർ ഘടകം ക്രാക്ക് ഫ്രണ്ടിൽ കോൺസ്റ്റന്റ് ആയി തുടരുന്നു അനന്തമായ പ്ലേറ്റിലെ സെന്റർ ക്രാക്കുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടർ കുറവാണ് 64 ടൈംസ് സിഗ്മ റൂട്ട് പൈ a ആണ് സർക്കുലർ ഫ്ലോക്ക് ശേഷം നമ്മൾ ഒരു എലിപ്റ്റിക്കൽ ഫ്ലോയിലേക്ക് നീങ്ങി ഒരു എലിപ്റ്റിക്കൽ ഫ്ലോയിൽ മാത്രമേ സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടറിന് ക്രാക്ക് ഫ്രണ്ടിന്റെ ഒരു പോയിന്റ് മുതൽ മറ്റൊരു പോയിന്റ് വരെ മാറാൻ കഴിയൂ എന്ന് നമ്മൾ ശ്രദ്ധിച്ചു ആ നിർവചനം ഇവിടെ നൽകിയിരിക്കുന്നു നിങ്ങൾക്ക് സിഗ്മ റൂട്ട് പൈ എ ഡിവൈഡഡ് ബൈ I2 എന്ന് അറിയാം നിങ്ങൾക്ക് തീറ്റയുമായി ബന്ധപ്പെട്ട ഒരു ഫംഗ്ഷൻ ഉണ്ട് നിങ്ങൾ തീറ്റ വ്യക്തമാക്കുമ്പോൾ എലിപ്സിലെ പോയിന്റ് എങ്ങനെ കണ്ടെത്താമെന്നും നമ്മൾ ശ്രദ്ധിച്ചു എനിക്ക് ഇതുപോലുള്ള തീറ്റ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു നോർമൽ ഡ്രോപ്പ് ചെയ്യുന്നു ഇത് ഈ ഘട്ടത്തിൽ ഈ എലിപ്സിൽ എത്തുന്നു അതിനാൽ ഈ പോയിന്റിനായി സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടർ നൽകിയിരിക്കുന്നു എംബെഡഡ് എലിപ്റ്റിക്കൽ ഫ്ലോയിൽ നിന്ന് നമ്മൾ ഒരു സർഫസ് ക്രാക്കിലേക്ക് നീങ്ങി ഇവിടെ ആ എലിപ്റ്റിക്കൽ ഫ്ലോയെക്കുറിച്ചും എഡ്ജ് ക്രാക്കിനെക്കുറിച്ചും നമ്മൾ വിശദീകരിച്ചു ഈ സൊല്യൂഷൻ 1 12 ടൈംസ് സിഗ്മ ആയി മാറ്റുക എന്നതാണ് ഏറ്റവും ലളിതമായ സൊല്യൂഷൻ പിന്നീട് നമ്മൾ പ്ലാസ്റ്റിറ്റിസിറ്റി കറക്ഷൻ ഉൾപ്പെടുത്തിയ ക്രാക്ക് ദൈർഘ്യത്തിന്റെ നിർവചനം കണ്ടു ന്യൂമാന്റെയും രാജുവിന്റെയും എംപിരിക്കൽ റിലേഷൻ നമ്മൾ പരിശോധിച്ചിരുന്നു അടിസ്ഥാനപരമായി നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് എംബഡഡ് എലിപ്റ്റിക്കൽ ഫ്ലോയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു സർഫസ് ഫ്ലോ കുറച്ചുകൂടി അപകടകരമാണ് എന്നിട്ട് നമ്മൾ ഒരു കോർണർ ക്രാക്കിലേക്ക് നീങ്ങി കോർണർ ക്രാക്കിനായി നിങ്ങൾക്ക് തിരിച്ചറിഞ്ഞു നിങ്ങൾക്ക് ഈ ഭാഗത്ത് ഒരു സ്വതന്ത്ര സർഫസ് ഉണ്ട് ഇവിടെ മറ്റൊരു സ്വതന്ത്ര സർഫസ് ഉണ്ട് ഇതിന് വളരെ ഉയർന്ന KI ഉണ്ടായിരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കി നിങ്ങൾക്ക് ഇത് 1 2 ടൈംസ് സിഗ്മ റൂട്ട് പൈ a ആയി കിട്ടി അതിനാൽ ഈ ചർച്ച ഒരർത്ഥത്തിൽ വിവിധ തരത്തിലുള്ള ക്രാക്കുകളോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കണം എന്നതിനെക്കുറിച്ചുള്ള ആപേക്ഷിക അറിവ് നൽകുന്നു അവ ത്രൂ തിക്നെസ്സ് ക്രാക്ക് അല്ലെങ്കിൽ ആന്തരികമായ ക്രാക്ക് അല്ലെങ്കിൽ സർഫസ് ക്രാക്ക് അല്ലെങ്കിൽ എംബഡഡ് ക്രാക്ക് എന്തുതന്നെയായാലും മൊത്തത്തിലുള്ള സ്ട്രക്ച്ചറൽ പെരുമാറ്റത്തിൽ സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടറിന്റെ സ്വാധീനം എങ്ങനെ കാണാമെന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ഏകദേശ സമീപനമുണ്ട് ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ക്രാക്ക് ടിപ്പിന് സമീപമുള്ള പ്ലാസ്റ്റിക് സോണിന്റെ മോഡലിംഗിലേക്ക് നമ്മൾ നീങ്ങും ഇതിനെല്ലാം പ്രചോദനം എന്താണെന്ന് നാം നോക്കേണ്ടതുണ്ട് പൊട്ടുന്ന വസ്തുക്കളുടെ പശ്ചാത്തലത്തിൽ ഫ്രാക്ചർ മെക്കാനിക്സ് നമ്മൾ ചർച്ചചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം അങ്ങനെയാണ് ഗ്രിഫിത്ത് ആരംഭിച്ചത് പിന്നീട് ഇർവിൻ ഒറോവാൻ എന്നിവർ ഡക്റ്റൈൽ മെറ്റീരിയലുകൾ കൈകാര്യം ചെയ്യുന്നതിനായി ഇത് വിപുലീകരിച്ചു നിങ്ങൾ പോയി അത് നോക്കുമ്പോൾ നിങ്ങൾ പഠിക്കേണ്ടത് ഇതാണ് നമ്മൾ പരിമിതമായ പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ ഉള്ള ഫ്രാക്ച്ചർ വരുന്ന മെറ്റീരിയലുകളും നോക്കാൻ ആഗ്രഹിക്കുന്നു നെറ്റ് സെക്ഷൻ യീൽഡ് സംഭവിക്കുന്നതിനേക്കാൾ കുറവായ പ്രായോഗിക സ്ട്രെസ് നിലകളിൽ ഉള്ള പഠനം പൊട്ടുന്ന വസ്തുക്കളിൽ നിന്ന് ഡക്റ്റൈൽ മെറ്റീരിയലുകളിലേക്ക് ഫ്രാക്ചർ മെക്കാനിക്സിന്റെ വിപുലീകരണം നമ്മൾ ആരംഭിച്ചത് ഇങ്ങനെയാണ് നിങ്ങൾ തിരിച്ചറിയണം തുടക്കത്തിൽ ഫ്രാക്ചർ മെക്കാനിക്സ് ലീനിയർ ഇലാസ്റ്റിക് മെറ്റീരിയൽ സ്വഭാവത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഇതിൽ നമുക്ക് മതിയായ വിജയം ലഭിച്ചു സിദ്ധാന്തം പരീക്ഷണാത്മക നിരീക്ഷണവുമായി പൊരുത്തപ്പെടുന്നു അതിനാൽ ലീനിയർ ഇലാസ്റ്റിക് ഫ്രാക്ചർ മെക്കാനിക്സിന്റെ വിജയത്തോടെ ആളുകൾ അത്തരമൊരു ഏകദേശ സാധുതയില്ലാത്ത വസ്തുക്കളെക്കുറിച്ചും ചിന്തിച്ചു അതാണ് പ്രചോദനം നോക്കൂ ക്രാക്ക് ടിപ്പിൽ എന്താണ് സംഭവിക്കുന്നതെന്നതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ധാരണയിൽ നിന്ന് നിങ്ങൾക്ക് അകന്നുനിൽക്കാനാവില്ല ഇൻഇലാസ്റ്റിക് ഡിഫോർമേഷൻ കാരണം ചിലതരം മോഡലിംഗ് എല്ലായ്പ്പോഴും ആവശ്യമാണ് കാരണം നിങ്ങൾ പൊട്ടുന്ന വസ്തുക്കളിൽ നിന്ന് ഹൈ സ്ട്രെങ്ത് അലോയ്കളിലേക്കുംഹൈ സ്ട്രെങ്ത് അലോയിൽ നിന്ന് ന്യായമായ അളവിലുള്ള പ്ലാസ്റ്റിസിറ്റി പ്രകടിപ്പിക്കുന്ന ഇന്റർമീഡിയറ്റ് അലോയ്കളിലേക്കും നമ്മൾ പോകണം അതിനാൽ നിങ്ങൾ ഇവിടെ നോക്കുന്നത് ലീനിയർ ഇലാസ്റ്റിക് ഫ്രാക്ചർ മെക്കാനിക്സിന്റെ ഡൊമെയ്നിനുള്ളിൽ അവർ വികസിപ്പിച്ച തന്ത്രങ്ങൾ എന്തൊക്കെയാണ് ഈ വിശകലനം ചിലതരം ഡക്റ്റൈൽ മെറ്റീരിയലുകളിലേക്ക് വ്യാപിപ്പിക്കുന്നതിന് എന്ത് ചെയ്യാം പിന്നീട് വിപുലമായ പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇലാസ്റ്റോ പ്ലാസ്റ്റിക് ഫ്രാക്ചർ മെക്കാനിക്സിന്റെ ആശയങ്ങൾ കൊണ്ടുവരണം ഇവ കണ്ടെത്തുന്നതിനുള്ള പ്രചോദനം എന്താണ് എന്നതാണ് നമ്മൾ ഇപ്പോൾ തിരിച്ചറിയുന്നത് ലീനിയർ ഇലാസ്റ്റിക് ഫ്രാക്ചർ മെക്കാനിക്സിന്റെ വിപുലീകരണമാണ് പ്രചോദനം ഞാൻ സൂചിപ്പിച്ചതുപോലെ LEFM ന്റെ വിജയത്തോടെ അത്തരമൊരു ഏകദേശീകരണം അസാധുവാകുന്ന വസ്തുക്കളും താൽപ്പര്യമുണർത്തി മറ്റൊരു നിരീക്ഷണവുമുണ്ട് ഇത് ആളുകളെ ആ ദിശയിലേക്ക് പോകാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു നോക്കൂ സ്ട്രക്ച്ചറൽ ഘടകം തന്നെ LEFM നെ അനുസരിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ ഫ്രാക്ച്ചർ സ്വഭാവസവിശേഷതകൾ ലഭിക്കാൻ ചെയ്യുന്ന ചെറിയ തോതിൽ ഉള്ള ലബോറട്ടറി പരീക്ഷണങ്ങൾ അത്തരമൊരു രീതിയിൽ പ്രവർത്തിക്കില്ല അതിനാൽ ഇത് മറ്റൊരു കോണാണ് സർവീസ് സാഹചര്യത്തിലുള്ള ഒരു പ്രത്യേക മെറ്റീരിയലിന്റെ സ്വഭാവത്തിന് പ്രസക്തമായ ഫ്രാക്ചർ പാരാമീറ്ററുകൾ കണ്ടെത്താൻ ആളുകൾ ആഗ്രഹിക്കുന്നു ക്രാക്ക് ടിപ്പിന് സമീപമുള്ള പ്ലാസ്റ്റിക് സോൺ കൈകാര്യം ചെയ്യുന്നതിനുള്ള പുതിയ മാർഗ്ഗങ്ങൾ ആളുകൾ അന്വേഷിക്കുന്നതിന്റെ മറ്റൊരു തലമാണിത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വേണ്ടത്ര ഡക്ടയിൽ ആയ ടഫ്നെസ്സ് ഉള്ള വസ്തുക്കളിൽ ക്രാക്ക് വളർച്ചയ്ക്കൊപ്പം ഉണ്ടാകുന്ന പ്ലാസ്റ്റിക്ക് യീൽഡിങ് വ്യാപ്തി മാതൃകാ അളവുകൾക്ക് അനുസരിച്ചാണ് ഉണ്ടാകുക അതിനാൽ ഇതാണ് ലക്ഷ്യം നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ പോയി അത് ചെയ്യും തുടക്കത്തിൽ ചെയ്തത് 1958 ൽ ഇർവിൻ കീസ് സ്മിത്ത് എന്നിവർ ചെയ്തത് ലീനിയർ ഇലാസ്റ്റിക് സമീപനത്തിന്റെ പ്രയോഗക്ഷമത വിശാലമാക്കുകയാണ് കൂടാതെ പ്ലാസ്റ്റിസിറ്റി എൻഹാൻസ്ഡ് സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടർ നിർദ്ദേശിക്കുകയും അതിൽ ക്രാക്കിന്റെ നീളം ചെറുതായി വലുതാക്കുകയും ചെയ്തു നോക്കൂ നിങ്ങൾ നോക്കേണ്ടതുണ്ട് 1958 ൽ ഫ്രാക്ചർ മെക്കാനിക്സ് ആയിരുന്നപ്പോൾ ഇത്തരത്തിലുള്ള ജോലിയായിരുന്നു പ്രാരംഭ ഘട്ടങ്ങളിൽ സുപ്രധാന സംഭാവനകളും പുതിയ ആശയങ്ങളും ഇർവിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഗ്രൂപ്പ് നിർദ്ദേശിച്ചു അവർ വളരെ ലളിതമായ പരിഷ്ക്കരണത്തോടെയാണ് അവതരിപ്പിച്ചത് അവർ പറഞ്ഞത് നിങ്ങൾ ഒരു പ്ലാസ്റ്റിസിറ്റി എൻഹാൻസ്ഡ് സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടർ നേടണം ഇതിൽ അവർ ചെയ്തത് ഇതാണ് നമ്മൾ ഇതിനകം ഒരു സർഫസ് ക്രാക്ക് നോക്കിയിട്ടുണ്ട് എ ആയി ക്രാക്ക് നീളം എടുക്കുന്നതിനുപകരം അവർ ഒരു ചെറിയ ക്രാക്ക് എക്സ്റ്റൻഷൻ നീളമെടുത്തിട്ടുണ്ട് ഇത് ക്രാക്ക് ടിപ്പിന് സമീപമുള്ള പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ തീരുമാനിക്കുന്നു ഇതൊരു തരത്തിലുള്ള സമീപനമായിരുന്നു മറ്റൊരു രീതിയിലുള്ള സമീപനത്തെ വെൽസും കോട്രലും പ്രോത്സാഹിപ്പിച്ചു 1961 ൽ അവർ ഇത് സ്വതന്ത്രമായി ചെയ്തു പൊതുവായ യീൽഡ് നൽകുന്ന സാഹചര്യങ്ങൾക്കപ്പുറവും ഇത് ബാധകമാകുമെന്ന പ്രതീക്ഷയിൽ അവർ ഒരു ബദൽ ആശയം മുന്നോട്ടുവച്ചു ജെ ഇന്റഗ്രൽ ചർച്ചചെയ്യുമ്പോൾ നമ്മൾ ഇത് എടുക്കും ഇലാസ്റ്റോപ്ലാസ്റ്റിക് ഫ്രാക്ചർ മെക്കാനിക്സിന്റെ മറ്റൊരു അളവ് COD സമീപനമാണ് ക്രാക്ക് ടിപ്പിന് സമീപമുള്ള പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ മനസിലാക്കാൻ ഈ രണ്ട് സമീപനങ്ങളും ഉണ്ടായിരുന്നുവെന്ന് നമ്മൾ കാണും ഇർവിന്റെ ഫലത്തിൽ നിന്ന് വെൽസ് ക്രാക്ക് ഓപ്പണിങ് ഡിസ്പ്ലേസ്മെന്റ് വിലയിരുത്തി ഇവിടെ ഇത് മറ്റൊരു സന്ദർഭത്തിൽ ഉപയോഗിക്കുന്നു നമുക്ക് ഇപ്പോൾ ഒരു ചിത്രം നോക്കാം നമ്മൾ കുറച്ച് കഴിഞ്ഞ് കുറച്ച് സമയം ചിലവഴിക്കും ഇതിനായി ഇർവിന്റെ കാഴ്ചപ്പാടിൽ ക്രാക്ക് യഥാർത്ഥ ക്രാക്കിനെക്കാൾ നീളമുള്ളതാണെന്ന് നിങ്ങൾ കരുതുന്നു യഥാർത്ഥ ക്രാക്ക് ഇത് മാത്രമാണ് അതിനാൽ അഗ്രത്തിൽ COD എന്ന് ലേബൽ ചെയ്തിട്ടുള്ള ഒരു ഓപ്പണിംഗ് ഉണ്ടാകും അതിനാൽ ആളുകൾ പുതിയ പാരാമീറ്ററുകൾ സൃഷ്ടിച്ചു പ്രത്യേകിച്ചും ലബോറട്ടറി ഫലങ്ങൾ എടുക്കുന്ന കാഴ്ചപ്പാടിൽ യഥാർത്ഥ സ്ട്രക്ച്ചറൽ ഘടകങ്ങൾ വിശകലനം ചെയ്യുന്നതിന് ഇത് ഉപയോഗപ്രദമാണ് ഈ അധ്യായത്തിൽ ഇർവിൻ നടത്തിയ ചർച്ചയെന്താണ് പ്ലാസ്റ്റിക് സോണിന്റെ ഏകദേശ രൂപം എന്താണ് ക്രാക്ക് ടിപ്പിന് മുന്നോടിയായി പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ വരുത്തുന്നതിൽ ഡഗ്ഡേൽ നൽകിയ മാതൃക എന്താണ് അതിനു മുൻപ് ഫ്രാക്ചർ മെക്കാനിക്സിൽ പ്ലെയിൻ സ്ട്രെസും പ്ലെയിൻ സ്ട്രെയിൻ ടെർമിനോളജികളും എങ്ങനെ ഉപയോഗിക്കുന്നുവെന്നത് ഓർമിക്കുന്നത് മൂല്യവത്താണെന്ന് നമ്മൾ കരുതുന്നു ഫ്രാക്ചർ മെക്കാനിക്സിൽ പ്ലെയിൻ സ്ട്രെസും പ്ലെയിൻ സ്ട്രെയിനും അപ്പ്ളൈഡ് മെക്കാനിക്സിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവയ്ക്ക് വളരെ കൃത്യമായ അർത്ഥങ്ങളുണ്ട് നമുക്കറിയാംപ്ലെയ്ൻ സ്ട്രെസ് എന്താണ് നമ്മൾ സ്ട്രെസ് ടെൻസറും സ്ട്രെയിൻ ടെൻസറും പരിശോധിച്ചു ഫ്രാക്ചർ മെക്കാനിക്സിലേക്ക് നിങ്ങൾ വരുന്ന നിമിഷം ഇവ കുറച്ച് ലളിതമായ വഴികളിലാണ് പ്രയോഗിക്കുന്നത് നിങ്ങൾ അത് തിരിച്ചറിഞ്ഞ് അത് നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കണം അപ്പ്ളൈഡ് മെക്കാനിക്സിന്റെ പശ്ചാത്തലത്തിൽ പ്ലെയ്ൻ സ്ട്രെസ് കർശനമായി അർത്ഥമാക്കുന്നത് നോർമൽ ദിശയിൽ പ്രവർത്തിക്കുന്ന പ്രിൻസിപ്പൽ സ്ട്രെസ് എന്നാണ് താൽപ്പര്യമുള്ള പ്ലെയ്ൻ വളരെ ചെറുതാണ് ഫ്രാക്ച്ചർ ഏരിയയിൽ നിങ്ങൾ പ്ലെയിൻ സ്ട്രെസ് എന്ന് വിളിക്കുന്നത് ഇൻ പ്ലെയിൻ ലോഡിംഗുള്ള തിൻ കോംപോണേന്റ്സ് ആയി ഇതിനെ പരാമർശിക്കുന്നു നമ്മൾ ഒരു കാര്യം കൂടി ചെയ്യുന്നു തിക്നെസ്സ് ഘടകങ്ങളുടെ സർഫസ് പാളി ഒരു പ്ലെയ്ൻ സ്ട്രെസ് രീതിയിൽ പ്രവർത്തിക്കുന്നുവെന്ന് നമ്മൾ പറയുന്നു ഇത് അസാധാരണമായ ഒന്നാണെന്ന് നിങ്ങൾക്കറിയാം ഫ്രാക്ചർ മെക്കാനിക്സിൽ ചില ആശയങ്ങൾ വികസിപ്പിക്കുന്നതിന് ഇത് നമുക്ക് വളരെ സൌകര്യപ്രദമാണ് അതിനാൽ ഫ്രാക്ചർ മെക്കാനിക്സിന്റെ പശ്ചാത്തലത്തിൽ പ്ലെയ്ൻ സ്ട്രെസ് പ്ലെയ്ൻ സ്ട്രെയിൻ എന്നിവ എന്താണ് എന്നതിന്റെ നിർവചനത്തിൽ നമ്മൾ ചെറിയ വ്യതിയാനം വരുത്തി അതിനാൽ ഒരു വ്യത്യാസമുണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയണം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്ലെയ്ൻ സ്ട്രെസ് എന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നതിന്പ്ലെയ്നിന്റെ നോർമൽ ദിശയിലുള്ള സ്ട്രെസ് ഗ്രേഡിയന്റുകളും വളരെ ചെറുതായിരിക്കണം നേർത്ത പ്ലേറ്റുകളിൽ പോലും ഈ അവസ്ഥ പൂർണ്ണമായും തൃപ്തികരമല്ല ഒരു നേർത്ത പ്ലേറ്റിനായി ഇത് ഏകദേശം സംതൃപ്തമാണ് നോക്കൂ പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ കാരണം ഈ ഇലാസ്റ്റിക് മേഖലയുടെ അടുത്തുള്ള ഭാഗം ഒരു പരിധി വരെ ഡിഫോർമേഷൻ വരുത്താൻ വിസമ്മതിക്കും അതിനാൽ നിങ്ങൾക്ക് പ്ലാസ്റ്റിക് സോണിലും ഇലാസ്റ്റിക് സോണിലും ടെൻഷൻ കംപ്രഷൻ തരത്തിലുള്ള അവസ്ഥ ഉണ്ടാകും നിങ്ങൾക്ക് തിക്നെസ്സ് ദിശയിൽ വികസിപ്പിച്ച സ്ട്രെസ് ഗ്രേഡിയന്റ് ഉണ്ടാകും അതിനാൽ ഫ്രാക്ചർ മെക്കാനിക്സിന്റെ പശ്ചാത്തലത്തിൽ ഇൻ പ്ലെയിൻ ലോഡിംഗിന് വിധേയമായ നേർത്ത പ്ലേറ്റുകളെ ഒരു പ്ലെയ്ൻ സ്ട്രെസ് സാഹചര്യത്തിന് തുല്യമാക്കാമെന്ന് നമ്മൾ പറയുന്നു അപ്പ്ളൈഡ് മെക്കാനിക്സിന്റെ നിർവചനത്തിൽ നിന്ന് നിർവചനം കർശനമായി ശരിയല്ല നേർത്ത പ്ലേറ്റിൽ ഇത് ഏകദേശം സംതൃപ്തമാണ് കട്ടിയുള്ള ബോഡിയിലെ സർഫസിൽ തീർച്ചയായും ഇത് തൃപ്തിപ്പെടുത്തുന്നില്ല തിക്നെസ്സ് ദിശയിലേക്ക് ഗ്രേഡിയന്റുകൾ നിലവിലുണ്ട് ഇത് വളരെ ശരിയാണ് കാരണം നമ്മൾ വളരെ സങ്കീർണ്ണമായ ഒരു പ്രശ്ന സാഹചര്യം കൈകാര്യം ചെയ്യുന്നു നാം മുന്നോട്ട് പോകണം LEFM EPFM ന്റെ ശ്രേണി നമ്മുടെ കാര്യങ്ങൾ ലളിതമാക്കുന്ന ചില ഏകദേശ കണക്കുകൾ നടത്തേണ്ടതുണ്ട് പ്ലാസ്റ്റിക് സോണിന്റെ ചർച്ചയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് പ്ലാസ്റ്റിക് സോണിനെ അടിസ്ഥാനമാക്കി ലീനിയർ ഇലാസ്റ്റിക് ഫ്രാക്ചർ മെക്കാനിക്സ് ഇലാസ്റ്റോപ്ലാസ്റ്റിക് ഫ്രാക്ചർ മെക്കാനിക്സ് എന്നിവയുടെ പരിധി നമ്മൾ ഇതിനകം കണ്ടു നിങ്ങൾ തിരിച്ചറിയണം പ്ലാസ്റ്റിക് സോൺ വളരെ ലോക്കലൈസ്ഡ് ചെയ്തിരിക്കുന്നു വലുതാക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് കാണാൻ കഴിയൂ പ്ലെയ്ൻ സ്ട്രെസ് സാഹചര്യത്തിൽ ഹൈ സ്ട്രെങ്ത് വസ്തുക്കളിൽ നിലനിൽക്കുന്ന അവസ്ഥ ഇതാണ് പ്ലെയ്ൻ സ്ട്രെസ് സഹചര്യത്തിൽ ഹൈ സ്ട്രെങ്ത് ഉള്ള വസ്തുക്കളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ പ്ലാസ്റ്റിക് സോൺ ഉണ്ട് എന്നാൽ പ്ലേറ്റ് അളവുകളുമായും ക്രാക്ക് നീളവുമായും താരതമ്യപ്പെടുത്തുമ്പോൾ പ്ലാസ്റ്റിക് സോണിന്റെ വലുപ്പം വളരെ ചെറുതാണ് അതിനാൽ ഈ ക്ലാസ് പ്രശ്നങ്ങൾക്ക് മാത്രം നമ്മൾ അനുയോജ്യമായ ഏകദേശ കണക്കുകൂട്ടലുകൾ നടത്തുകയും സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടർ കണക്കാക്കുന്നതിനുള്ള നമ്മുടെ വഴിയിൽ ചില മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യും അതിനാൽ ഹൈ സ്ട്രെങ്ത് ഉള്ള ഡക്റ്റൈൽ അലോയ്കളുടെ വിശാലമായ ക്ലാസിലേക്ക് LEFM പ്രയോഗിക്കാൻ കഴിയും നിങ്ങൾക്ക് വളരെ ഹൈ സ്ട്രെങ്ത് പ്ലാസ്റ്റിക് സോൺ ഉള്ള നിമിഷം നിങ്ങൾ ഇലാസ്റ്റോപ്ലാസ്റ്റിക് വിശകലനത്തിനായി പോകണം ക്രാക്കിന്റെയും മാതൃകയുടെ മറ്റ് അളവുകളേയും അപേക്ഷിച്ച് പ്ലാസ്റ്റിക് സോൺ വളരെ വലുതാണെങ്കിൽ പ്ലാസ്റ്റിക് കൊളപ്സിനെ അടിസ്ഥാനമാക്കിയുള്ള വിശകലനത്തിനായി നിങ്ങൾ പോകേണ്ടതുണ്ട് ചെറിയ തോതിലുള്ള യീൽഡിങ് ഇത് നമ്മൾ ഇതിനകം കണ്ടു ഏത് ഡൊമെയ്നിലാണ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്നതിനായി ഇത് അവലോകനം ചെയ്യാം ഇത്രയും വലിയ പ്ലാസ്റ്റിക് മേഖലയിലേക്ക് നമ്മൾ കൂടുതൽ നോക്കാൻ പോകുന്നില്ല നമ്മൾ വളരെ ചെറിയ പ്ലാസ്റ്റിക് സോണിലേക്ക് നോക്കാൻ പോകുന്നു അതിനാലാണ് ഇതിനെ ചെറിയ തോതിലുള്ള യീൽഡ് എന്ന് നമ്മൾ വിശേഷിപ്പിച്ചത് നമ്മൾ എന്ത് ചർച്ച ചെയ്താലും ഈ വശം തൃപ്തിപ്പെടുമ്പോൾ മാത്രമേ ഇത് ബാധകമാകൂ സാധാരണയായി പ്ലാസ്റ്റിറ്റിസിറ്റി ഇഫക്റ്റുകൾ വളരെ ഉയർന്ന സ്ട്രെസ് ഉള്ള ക്രാക്ക് ടിപ്പ് പരിസരത്ത് നിസാരമാണെന്ന് കണക്കാക്കപ്പെടുന്നു ചെറിയ തോതിൽ യീൽഡ് ലഭിക്കുന്ന തിക്നെസ്സ് വിഭാഗങ്ങൾക്ക് ഇത് ന്യായമായ അനുമാനമാണ് ഇർവിന്റെ കറക്ഷൻ നോക്കിയ ശേഷം ചെറുകിട യീൽഡ് നൽകുന്ന കാര്യങ്ങളും നമ്മൾ വിശദമായി പരിശോധിക്കും തൽക്കാലം ചെറിയ തോതിൽ യീൽഡ് നൽകുമ്പോൾ സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടർ നിർണ്ണയിക്കുന്ന സിംഗുലാർ സ്ട്രെസ് ഫീൽഡ് പ്ലാസ്റ്റിറ്റിസിറ്റിയുടെ മേഖലയ്ക്ക് പുറത്ത് നിലനിൽക്കുമെന്ന് കണക്കാക്കാം ഇത് ന്യായമായ ഒരു നല്ല അനുമാനമാണ് നമ്മുടെ ആവശ്യം ലളിതമാക്കാൻ നമ്മൾ ഒരു അനുമാനം ഉണ്ടാക്കുകയാണ് ഈ അനുമാനം സാധുതയുള്ളിടത്തോളം കാലം നമ്മുടെ സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടർ കണക്കുകൂട്ടലിലെ ചില മെച്ചപ്പെടുത്തലുകൾക്ക് ഈ ക്ലാസ് മെറ്റീരിയലുകളെ ഉൾക്കൊള്ളാൻ കഴിയും നിങ്ങൾ നോക്കേണ്ട രീതി അതാണ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത് ഫ്രാക്ചർ മെക്കാനിക്സ് അടിസ്ഥാനമാക്കിയുള്ള എഞ്ചിനീയറിംഗ് ഡിസൈൻ ഘടനകളുടെ ബ്രിട്ടിൽ ഫെയ്ലിയർ നോക്കുന്നു സ്ട്രക്ച്ചർ മൊത്തത്തിൽ പെട്ടെന്ന് പൊട്ടുന്ന രീതിയിൽ പരാജയപ്പെടുന്നു എന്നാൽ ക്രാക്ക് ടിപ്പിൽ എന്ത് സംഭവിക്കും ചില പ്ലാസ്റ്റിറ്റി ഇഫക്റ്റുകളും എന്താണ് സംഭവിക്കുന്നതെന്ന് നിർണ്ണയിക്കുന്നു ഇത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു അതാണ് നമ്മൾ നോക്കേണ്ടത് പ്ലാസ്റ്റിക് സോൺ വിലയിരുത്തുന്നതിനുള്ള രീതികൾ പ്ലാസ്റ്റിക് സോൺ എങ്ങനെ വിലയിരുത്താം ഇത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു വശമാണ് പ്ലാസ്റ്റിക് സോണിന്റെ ആകൃതിയെക്കുറിച്ചും വലുപ്പത്തെക്കുറിച്ചും ശരിയായ വിവരണം നൽകുന്നത് ബുദ്ധിമുട്ടാണ് നമ്മൾ ലളിതമായ മോഡലുകൾ നോക്കും ആകൃതിയുടെ നിർണ്ണയത്തിന് ഒരു അർത്ഥമുണ്ട് കാരണം ഒരു പ്ലെയിൻ സ്ട്രെയിൻ സാഹചര്യത്തിലും ഒരു പ്ലെയിൻ സ്ട്രെസ് സാഹചര്യത്തിലും സംഭവിക്കുന്ന കാര്യങ്ങൾ വേഗത്തിൽ താരതമ്യം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും എല്ലാ മോഡലുകളിലും വിശകലനം ലളിതമാക്കാൻ സാധാരണയായി മെറ്റീരിയൽ ഇലാസ്റ്റിക് ആണ് അതുപോലെ തികച്ചും പ്ലാസ്റ്റിക് ആണെന്ന് കണക്കാക്കപ്പെടുന്നു വാസ്തവത്തിൽ പല വസ്തുക്കളും സ്ട്രെയിൻ ഹാർഡനിങ് കാണിക്കുന്നു ലളിതമായ വിശകലനം ആയതുകൊണ്ട് നമ്മൾ അത് പരിഗണിക്കുന്നില്ല മെറ്റീരിയൽ ഇലാസ്റ്റിക് ആണ് തികച്ചും പ്ലാസ്റ്റിക്ക് ആണെന്ന് നമ്മൾ ലളിതമായി പറയുന്നു എന്ത് സംഭവിക്കും ക്രാക്ക് ടിപ്പിലെ പ്ലാസ്റ്റിക് സോൺ കാരണം സ്ട്രക്ച്ചറിന്റെ സ്റ്റിഫ്നെസ്സ് കുറയുന്നു അതായത് കോംപ്ലയൻസ് വർദ്ധിക്കുന്നു അതിനാൽ ഇത്തരത്തിലുള്ള ഒരു നിരീക്ഷണം ഉൾക്കൊള്ളുന്നതിനായി ഇർവിൻ പറഞ്ഞു ക്രാക്ക് ഗണിതശാസ്ത്രപരമായി മോഡൽ ചെയ്യുമ്പോൾ യഥാർത്ഥ നീളത്തേക്കാൾ നീളമുള്ളതായിരിക്കണം ഉചിതമായ ക്രാക്കിന്റെ നീളം എങ്ങനെ കണ്ടെത്താം എന്നതാണ് ചോദ്യം ഇത് പല തരത്തിൽ ചെയ്യാവുന്നതാണ് നമ്മൾ വളരെ ലളിതമായ ഒരു മോഡൽ നോക്കുകയും നമ്മുടെ കണക്കുകൂട്ടലുകൾ മെച്ചപ്പെടുത്തുകയും ചെയ്യും ദ്രുതഗതിയിലുള്ള ഒരു മാർഗ്ഗം എന്നാൽ തീർച്ചയായും വളരെ അപരിഷ്കൃതമായ ഒരു സമീപനമാണ്അത് ഇങ്ങനെ ആണ് യീൽഡ് ക്രൈറ്റീരിയകളിലൊന്ന് തൃപ്തിപ്പെടുത്തുന്ന പോയിന്റ് കണ്ടെത്തുന്നതിലൂടെ ക്രാക്ക് ആക്സിസിൽ പ്ലാസ്റ്റിക് സോണിന്റെ വ്യാപ്തി കണ്ടെത്തുക എന്നതാണ് വിപുലമായ ഇലാസ്റ്റോ പ്ലാസ്റ്റിക് കണക്കുകൂട്ടൽ നമ്മൾ ചെയ്യില്ല കോഴ്സിന്റെ തുടക്കത്തിൽ സോളിഡ് മെക്കാനിക്സിന്റെ ഒരു അവലോകനം ഞാൻ നിങ്ങൾക്ക് നൽകിയിരുന്നു അവിടെ നിങ്ങൾ നോക്കിയത് സ്ട്രെസ് തുല്യമാകുമ്പോൾ രണ്ട് പ്രിൻസിപ്പൽ സ്ട്രെസ് ക്രാക്ക് ടിപ്പിൽ തുല്യമാകുമ്പോൾ ഒരു പ്ലെയ്ൻ സ്ട്രെസ് സാഹചര്യത്തിനും ഒരു പ്ലെയിൻ സ്ട്രെയിൻ സാഹചര്യത്തിനും നിങ്ങൾക്ക് പോയ്സൺ റേഷ്യോ 1 ബൈ 3 ആകും യീൽഡ് സിദ്ധാന്തങ്ങൾ നൽകുന്ന സ്ട്രെസിന്റെ അളവ് എന്താണെന്ന് കണക്കാക്കാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടു നിങ്ങൾ ഒരു ലളിതമായ ടെൻഷൻ ടെസ്റ്റ് നടത്തുമ്പോൾ നിങ്ങൾ ഒരു യൂണി ആക്സിയൽ ടെസ്റ്റ് നടത്തുകയാണ് കൂടാതെ നിങ്ങൾക്ക് സ്ട്രെസ് സിഗ്മ ys ആണ് എനിക്ക് മൾട്ടി ആക്സിയൽ സാഹചര്യം ഉണ്ടെങ്കിൽ വ്യക്തിഗത സ്ട്രെസ് മാഗ്നിറ്റ്യൂഡുകൾ യീൽഡ് സ്ട്രെങ്തിനേക്കാൾ വളരെ കൂടുതലായിരിക്കും സോളിഡ് മെക്കാനിക്സിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അവലോകനത്തിന്റെ ഭാഗമായാണ് നിങ്ങൾ ഇത് ശരിക്കും നോക്കിയത് ഞാൻ ഉടൻ തന്നെ ആ ഫലം ഉപയോഗിക്കാൻ പോകുന്നു യീൽഡ് ക്രൈറ്റീരിയയുടെ ഒരു കൂട്ടം തൃപ്തികരമായ പോയിന്റ് കണ്ടെത്തുന്നതിനുള്ള ഒരു സമീപനമാണ് ഞാൻ ഉപയോഗിക്കുന്നതെങ്കിൽ അത് വളരെ അപരിഷ്കൃതമാണ് എന്നിരുന്നാലും പ്ലെയ്ൻ സ്ട്രെസിലും പ്ലെയ്ൻ സ്ട്രെയ്നിലും ആപേക്ഷിക പ്ലാസ്റ്റിക് സോൺ വലുപ്പം താരതമ്യം ചെയ്യാൻ ഇത് സഹായിക്കുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ബാക്കി കോഴ്സിൽ നമ്മൾ സിംഗുലാർ സ്ട്രെസ് മേഖലയെക്കുറിച്ച് മാത്രം ചിന്തിക്കും മോഡ് I നായുള്ള ഈ സിംഗുലാർ സ്ട്രെസ് ഫീൽഡ് നിങ്ങൾക്കറിയാം എനിക്ക് പോയി പ്ലാസ്റ്റിക് സോൺ കണ്ടെത്തണമെങ്കിൽ ആദ്യപടിപ്രിൻസിപ്പൽ സ്ട്രെസ് കണ്ടുപിടിക്കുക എന്നതാണ് മോഡ് 1 ലോഡിംഗിന് കീഴിലുള്ള ക്രാക്ക് ടിപ്പിലെ പ്രിൻസിപ്പൽ സ്ട്രെസ് ഇപ്പോൾ നിങ്ങൾക്ക് സ്ട്രെസ് ഫീൽഡ് ഉണ്ട് ഇതിൽ നിന്ന് പ്രിൻസിപ്പൽ സ്ട്രെസ് എങ്ങനെ കണ്ടെത്താമെന്ന് നിങ്ങൾക്കറിയാം ഞാൻ ഇത് നടപ്പിലാക്കുന്നതിനായി ക്രാക്ക് ടിപ്പിന് സമീപമുള്ള പ്രിൻസിപ്പൽ സ്ട്രെസിന്റെ എക്സ്പ്രഷൻ കണക്കാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു സ്ട്രെസ് ഫീൽഡിനായി നിങ്ങൾക്ക് എക്സ്പ്രഷനുകൾ ഉണ്ട് പ്രിൻസിപ്പൽ സ്ട്രെസ് കണക്കാക്കുന്നത് എളുപ്പമാണ് നമ്മൾ ഇപ്പോൾ പ്രിൻസിപ്പൽ സ്ട്രെസ് എക്സ്പ്രഷൻ നോക്കും സിഗ്മ 1 ഈക്വൽ റ്റു KI ബൈ റൂട്ട് ഓഫ് 2 പൈ r കോസ് തീറ്റ ബൈ 2 ഇന്റു 1 പ്ലസ് സൈൻ തീറ്റ ബൈ 2 ആണ് സിഗ്മ 2 എന്നത് KI ബൈ റൂട്ട് ഓഫ് 2 പൈ r കോസ് തീറ്റ ബൈ 2 ഇന്റു 1മൈനസ് സൈൻ തീറ്റ ബൈ 2 ആണ് ഒരു പ്ലെയിൻ സ്ട്രെസ് സാഹചര്യത്തിന്റെ കാര്യത്തിൽ സിഗ്മ 3 0 ആണ് പ്ലെയിൻ സ്ട്രെയിൻ സാഹചര്യത്തിന്റെ കാര്യത്തിൽ തിക് പ്ലേറ്റുകളിൽ കാണുന്ന പോലെ എനിക്ക് സിഗ്മ 3 2 ന്യൂ KI ബൈ റൂട്ട് ഓഫ് 2 പൈ r കോസ് തീറ്റ ബൈ 2 ആയി നൽകിയിട്ടുണ്ട് തീറ്റ ഈക്വൽ റ്റു 0ന്യു ഈക്വൽ റ്റു 0 5 ആകുമ്പോൾ ഇവിടെയുള്ളത് സിഗ്മ 1 സിഗ്മ 2 എന്നിവയ്ക്ക് തുല്യമാകും എന്ന് നിങ്ങൾക്ക് കണ്ടെത്താനാകും ഇത് ക്രാക്ക് ടിപ്പിന് സമീപമുള്ള ട്രയാക്സിയൽ സാഹചര്യം വിശദീകരിക്കുന്നു നമ്മൾ ഇത് ചിത്രം ആയി നേരത്തെ കണ്ടിരുന്നു ഇപ്പോൾ നമ്മൾ ഇത് ഗണിതശാസ്ത്രപരമായി നോക്കുകയാണ് അതിനാൽ നിങ്ങൾക്ക് ഒരു ക്രാക്ക് സംഭവിക്കുമ്പോൾ ട്രയാക്സിയൽ സാഹചര്യം സാധ്യമാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം ഇത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് നമുക്ക് ഒരു ദ്വാരമുള്ള ഒരു പ്ലേറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബയാക്സിയൽ സ്ട്രെസ് ഫീൽഡ് ഉണ്ടെന്ന് നിങ്ങൾ പറയുന്നു ഒരു യൂണി ആക്സിയൽ സ്ട്രെസ് ഫീൽഡ് ബയാക്സിയൽ സ്ട്രെസ് ഫീൽഡിലേക്ക് മാറുന്നു നിങ്ങൾക്ക് ഒരു ക്രാക്ക് സംഭവിച്ച നിമിഷം അത് ഒരു ട്രയാക്സിയാൽ സാഹചര്യമായി മാറിയേക്കാം ക്രാക്ക് ടിപ്പ് മൂർച്ചയുള്ളതാണെന്ന് കരുതുക ക്രാക്ക് ടിപ്പിൽ സംഭവിക്കുന്നതിനുപകരം ട്രയാക്സിയൽ സാഹചര്യം ക്രാക്ക് ടിപ്പിന് അല്പം മുന്നിലാണ് നിങ്ങൾ നോക്കേണ്ട രീതി അതാണ് നമ്മൾ ഉപയോഗിച്ച മെറ്റീരിയൽ മോഡൽ എന്താണ് ഇലാസ്റ്റിക് എന്നാൽ തികച്ചും പ്ലാസ്റ്റിക്ക് ആണ് യീൽഡ് ക്രൈറ്റീരിയ രണ്ട് ഉണ്ട് ഇത് നിങ്ങൾക്കറിയാം അവലോകനത്തിനായി നമ്മൾ അത് നോക്കുകയാണ് മൂന്ന് പ്രിൻസിപ്പൽ സ്ട്രെസുകളും വോൺ മിസസ് മാനദണ്ഡം ഉപയോഗിക്കുന്നു സിഗ്മ 1 മൈനസ് സിഗ്മ 2 ഹോൾ സ്ക്വയർ പ്ലസ് സിഗ്മ 2 മൈനസ് സിഗ്മ 3 ഹോൾ സ്ക്വയർ പ്ലസ് സിഗ്മ 3 മൈനസ് സിഗ്മ 1 ഹോൾ സ്ക്വയർ എന്നത് 2 സിഗ്മ ys സ്ക്വയറിനേക്കാൾ വലുതോ തുല്യമോ ആണ് എന്നതാണ് കണ്ടീഷൻ ഇതാണ് യീൽഡ് സ്ട്രെങ്ത് ഇത് സിഗ്മ ys നുള്ളിൽ ആയിരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അതിനേക്കാൾ വലുതാണെങ്കിൽ യീൽഡ് സംഭവിക്കും നിങ്ങൾ ട്രെസ്ക മാനദണ്ഡത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾ തിരിച്ചറിയണം ഇത് സിഗ്മ 1 മൈനസ് സിഗ്മ 2 അല്ല ഇത് സിഗ്മ മാക്സ് മൈനസ് സിഗ്മ മിനിമം ഡിവൈഡഡ് ബൈ 2 എന്നാണ് എഴുതുന്നത് ഫ്രാക്ചർ മെക്കാനിക്സ് പ്രശ്നത്തിൽ ഇത് പ്രാധാന്യമർഹിക്കുന്നു കാരണം ക്രാക്ക് ടിപ്പിൽ ക്രാക്ക് ടിപ്പ് മൂർച്ചയുള്ളതാണെന്നും സിഗ്മ x ഈക്വൽ റ്റു സിഗ്മ y ആണെന്നും നിങ്ങൾ കരുതുന്നുവെങ്കിൽ നിങ്ങൾക്കത് ലഭിക്കുന്നു ഇത് മാത്രമല്ല രണ്ടും ഒരേ ചിഹ്നമാണ് രണ്ടും ഒരേ ചിഹ്നമാകുമ്പോൾ മറ്റ് മിനിമം സ്ട്രെസ് പൂജ്യമാണ് അതിനാൽ പൂജ്യം വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു അതിനാൽ പ്ലെയ്ൻ സ്ട്രെസ് അവസ്ഥയിലെ ഫ്രാക്ച്ചർ ് പ്രശ്നങ്ങളിൽ നിങ്ങൾ ട്രെസ്ക യീൽഡ് ക്രൈറ്റീരിയ പ്രയോഗിക്കുമ്പോൾ നിങ്ങൾ പരമാവധി ഷിയർ സ്ട്രെസ് ശ്രദ്ധാപൂർവ്വം കണക്കാക്കണം അതിനാൽ സിഗ്മ 1 സിഗ്മ 2 സിഗ്മ 3 എന്നിവയുടെ മൂല്യങ്ങൾ നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്നുകിൽ ഈ മാനദണ്ഡം അല്ലെങ്കിൽ ഈ മാനദണ്ഡം ഉപയോഗിച്ച് നിങ്ങൾക്ക് എല്ലായ്പ്പോഴും പ്ലാസ്റ്റിക് സോൺ വലുപ്പം എന്താണെന്ന് കണ്ടെത്താൻ കഴിയും ഇത് ഒരു ചിത്രമായി നൽകുന്നതിന് മാത്രമാണ് ഇലാസ്റ്റിക് എന്നാൽ തികച്ചും പ്ലാസ്റ്റിക്ക് എന്നാൽ നമ്മൾ എന്താണ് അർത്ഥമാക്കുന്നത് മെറ്റീരിയലിന്റെ സ്ട്രെയിൻ ഹാർഡനിങ് നിങ്ങൾ പരിഗണിക്കുന്നില്ല അത് കാരണം നമുക്ക് കണക്കുകൂട്ടൽ ലളിതമാണ് ട്രെസ്ക വോൺ മിസസ് യീൽഡ് ക്രൈറ്റീരിയ എന്നിവ ഉപയോഗിച്ച് പ്ലാസ്റ്റിക് സോണിന്റെ ആകൃതിയും വലുപ്പവും ലഭിക്കുന്നതിനുള്ള ലളിതമായ മോഡൽ ഇപ്പോൾ വരച്ചിരിക്കുന്നത് ഇതാണ് നിങ്ങൾക്ക് ഒരു ക്രാക്ക് ഉണ്ട് സ്ട്രെസ് മൂല്യങ്ങൾ ഇവിടെയുണ്ട് സിഗ്മ വൈ അറിയാം നിങ്ങളുടെ പ്ലെയിൻ സ്ട്രെയിൻ സാഹചര്യത്തിനനുസരിച്ച് പോയാൽ നിങ്ങൾ യീൽഡ് ക്രൈറ്റീരിയ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ കണ്ടെത്തുന്നത് നിങ്ങൾക്ക് പോയ്സൻസ് റേഷ്യോ 1 ബൈ 3 ആയിരിക്കുമ്പോൾ സിഗ്മ വൈ 3 ടൈംസ് സിഗ്മ ys എന്ന ഉയർന്ന മൂല്യം എടുക്കാം സിംപിൾ ടെൻഷൻ ടെസ്റ്റ് നോക്കിയാൽ സ്ട്രെസ് സിഗ്മ ys ൽ എത്തുമ്പോൾ യീൽഡ് ലഭിക്കുന്നു ഒരു ക്രാക്ക് പ്രശ്നത്തിന്റെ കാര്യത്തിൽ നമ്മൾ കണ്ടു നിങ്ങൾക്ക് ഒരു ട്രയാക്സിയൽ ലോഡിംഗ് സാഹചര്യം ഉണ്ട് ഒരു ട്രയാക്സിയൽ ലോഡിംഗ് സാഹചര്യത്തിൽ പ്രത്യേകിച്ചും നിങ്ങൾ പ്ലെയ്ൻ സ്ട്രെയിൻ കണക്കിലെടുക്കുമ്പോൾ വ്യക്തിഗത സ്ട്രെസ് മാഗ്നിറ്റ്യൂഡുകൾ വളരെ ഉയർന്നതായിരിക്കും ഇത് യീൽഡ് സ്ട്രെങ്ത്തിന്റെ മൂല്യത്തിന്റെ മൂന്നിരട്ടിയായിരിക്കാം ഒരു നീളം ഉണ്ടെന്നും നിങ്ങൾ നിർവചിക്കുന്നു ക്രാക്ക് ആക്സിസിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾ നോക്കുന്നു ഈ പോയിന്റിനെ ഒരു നീളമായി അടയാളപ്പെടുത്തുക ഇത് തെറ്റാണ് നമ്മൾ പിന്നീട് ഇത് മെച്ചപ്പെടുത്തും ആദ്യം നമ്മൾ യീൽഡ് സ്ട്രെങ്ത് മൂല്യം കണ്ടെത്തുമെന്ന് പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിൽ നീളം എന്താണെന്ന് കണ്ടെത്തുക ഇതിന്റെ അടിസ്ഥാനത്തിൽ തീറ്റയുടെ ഫങ്ഷനു എന്ത് സംഭവിക്കും എന്ന് കണ്ടെത്തുക അത് പ്ലാസ്റ്റിക് സോണിന്റെ ആകൃതി നൽകും അത് വളരെ ഏകദേശമാണ് കാരണം ലോഡിന്റെ പുനർവിതരണം നമ്മൾ പരിഗണിക്കുന്നില്ല യീൽഡ് സ്ട്രെങ്ത്തിന്റെ മൂല്യത്തിലെത്തുന്ന പോയിന്റുകൾ ഗണിതശാസ്ത്രപരമായി നമ്മൾ പ്ലഗ് ചെയ്യുന്നു അത് ശരിക്കും സംഭവിക്കാൻ പോകുന്നില്ല എന്നാൽ തീർച്ചയായും ഇത് നിങ്ങൾക്ക് ക്രാക്ക് ടിപ്പിന് സമീപമുള്ള പ്ലാസ്റ്റിക് സോണിന്റെ ഏകദേശ രൂപം നൽകുന്നു ആർപിയുടെ മൂല്യം 1 ബൈ 18 പൈ ഇന്റു KI ബൈ സിഗ്മ ys ഹോൾ സ്ക്വയർ ആയി മാറുന്നു ഇത് പ്രത്യേകിച്ചും പോയ്സൻസ് റേഷ്യോ 1 ബൈ 3 മൂല്യത്തിന് വേണ്ടിയാണ് നിങ്ങൾ ഒരു പ്ലെയ്ൻ സ്ട്രെസ് അവസ്ഥയിൽ എത്തുമ്പോൾ സിഗ്മ y ഈക്വൽ റ്റു സിഗ്മ x ആകുമെന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു മറ്റ് സ്ട്രെസ് എന്താണ് മറ്റ് സ്ട്രെസ് സിഗ്മ 3 0 ആണ് അതിനാൽ ഇത് നിങ്ങളോട് പറയുന്നു നിങ്ങൾ നോക്കേണ്ട പരമാവധി സ്ട്രെസ് സിഗ്മ ys മാത്രമാണ് നിങ്ങൾ ഈ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്ത് അത് സിഗ്മ ys ൽ എത്തുന്ന സ്ഥലം കണ്ടെത്തുകയാണെങ്കിൽ അത് ഇവിടെയുണ്ട് അതിനാൽ ഒരു പ്ലെയ്ൻ സ്ട്രെസ് സാഹചര്യത്തിന്റെ കാര്യത്തിൽ ക്രാക്കിന്റെ മുമ്പുള്ള പ്ലാസ്റ്റിക് സോണിന്റെ നീളം വളരെ നീളമുള്ളതാണ് ഇത് 1 ബൈ 2 പൈ ഇന്റു KI സിഗ്മ ys ഹോൾ സ്ക്വയർ എന്ന് നൽകിക്കുന്നു അതിനാൽ വളരെ ലളിതമായ ഈ വിശകലനം ഒരു പ്ലെയ്ൻ സ്ട്രെസ് സഹചര്യത്തിന്റെയും പ്ലെയ്ൻ സ്ട്രെയിൻ സഹചര്യത്തിന്റെയും കാര്യത്തിൽ പ്ലാസ്റ്റിക് സോണിന്റെ ആപേക്ഷിക പ്രാധാന്യം കാണിക്കുന്നു പ്ലെയ്ൻ സ്ട്രെസിന്റെ കാര്യത്തിൽ പ്ലാസ്റ്റിക് സോൺ വളരെ വലുതാണ് പ്ലെയ്ൻ സ്ട്രെയിൻ കാര്യത്തിൽ ഇത് വളരെ ചെറുതാണ് ഫ്രാക്ച്ചർ ടഫ്നെസ്സ് പരിശോധന നടത്താൻ ഉചിതമായ കനം എന്താണ് എന്ന് തീരുമാനിക്കാൻ പോലും ഈ ചർച്ചകൾ ആവശ്യമാണെന്ന് കാണുക തീർച്ചയായും ഇത് വളരെ ലളിതമായ ഒരു മാതൃകയാണ് എന്നാൽ ലളിതമായ ഒരു മോഡലിന്റെ പ്രയോജനം പ്ലാസ്റ്റിക് സോണിന്റെ ആകൃതി എന്താണെന്ന് നമുക്ക് പോയി കണക്കാക്കാം നമുക്ക് അത് നോക്കാം എന്തെങ്കിലും ആരംഭിക്കാൻ പോലും അത് വേണം ശീർഷകം ഏകദേശം എന്ന് എടുത്തു പറഞ്ഞിരിക്കുന്നു പ്ലാസ്റ്റിക് സോണിന്റെ നീളം ക്രാക്ക് ആക്സിസിൽ ലഭിക്കാൻ നമ്മൾ സ്വീകരിച്ച രീതി എന്തായാലുംഅത് തന്നെ സോണിന്റെ ആകൃതി ലഭിക്കുന്നതിന് ഉപയോഗിക്കുക നിങ്ങൾക്ക് സോണിന്റെ ആകൃതി ലഭിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അത് ഒരു പോളാർ പ്ലോട്ടായി മാറ്റുക തീറ്റയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് സിഗ്മ 1 സിഗ്മ 2 എന്നിവയ്ക്കുള്ള എക്സ്പ്രഷൻ ഉണ്ട് അതിനാൽ തീറ്റയുടെ ഒരു ഫംഗ്ഷനായി മൈനസ് പൈ മുതൽ പൈ വരെയുള്ള ശ്രേണിയിലെ ആർപിയുടെ മൂല്യം നമ്മൾ പ്രകടിപ്പിക്കും പോളാർ പ്ലോട്ട് വരയ്ക്കുക പ്ലെയ്ൻ സ്ട്രെസിനും പ്ലെയ്ൻ സ്ട്രെയ്നിനും ഉണ്ടാകുന്ന പ്ലാസ്റ്റിക് സോണുകളെ താരതമ്യം ചെയ്യാൻ ഇത് നമ്മളെ സഹായിക്കും ഇതാണ് ഉദ്ദേശ്യം നിങ്ങൾ ശരിക്കും പ്ലാസ്റ്റിക് സോൺ നേടേണ്ടതുണ്ടോയെന്ന് കാണുക ഒന്നുകിൽ നിങ്ങൾ ഒരു പരീക്ഷണാത്മക സമീപനത്തിലേക്ക് പോകണം മെറ്റലർജിസ്റ്റുകൾ അത് ചെയ്തു ഡഗ്ഡേൽ മോഡലിന്റെ പശ്ചാത്തലത്തിൽ അവർ പരീക്ഷണാത്മകമായി പ്ലാസ്റ്റിക് സോണിന്റെ ആകൃതിയിൽ എത്തിയിട്ടുണ്ടെന്നും നമ്മൾ കാണും അല്ലാത്തപക്ഷം നിങ്ങൾ ഒരു ഫൈനൈറ്റ് എലമെന്റ് അനാലിസിസ് കണക്കുകൂട്ടലിലേക്ക് പോകേണ്ടിവരും നിങ്ങൾ ചെയ്യുന്ന സമഗ്രമായ ഇലാസ്റ്റോപ്ലാസ്റ്റിക് വിശകലനം ബുദ്ധിമുട്ടേറിയതാണ് എല്ലാത്തരം മാതൃകകൾക്കും നിങ്ങൾ ഇത് ചെയ്യുന്നു കാരണം ഇവയെല്ലാം ഒരുതരം മാതൃകയെയും ലോഡിംഗിനെയും ആശ്രയിച്ചിരിക്കുന്നു നമ്മൾ ഇപ്പോൾ നോക്കാൻ ശ്രമിക്കുന്നത് പ്ലെയ്ൻ സ്ട്രെസിലും പ്ലെയ്ൻ സ്ട്രെയ്നിലും ഇവയുടെ ആപേക്ഷിക ആകൃതികളെക്കുറിച്ചുള്ള ഏകദേശ ധാരണയാണ് നിങ്ങൾ ഫോക്കസ് മനസ്സിൽ സൂക്ഷിക്കണം അതിനാൽ ഇത് ആകൃതിയുടെ ആദ്യ ഓർഡർ അപ്പ്രോക്സിമേഷൻ മാത്രമേ നൽകുന്നുള്ളൂ കാരണം ലോഡ് പുനർവിതരണം ചെയ്യാൻ മെത്തഡോളജി ശ്രമിക്കുന്നില്ല അതിനാൽ ഇതാണ് പ്രധാന വശം പ്ലെയ്ൻ സ്ട്രെസ് കാര്യത്തിൽ ഞാൻ ഇതിനകം നിങ്ങളുടെ ശ്രദ്ധ ആകർഷിച്ചിരുന്നു മോർ സർക്കിളിന്റെ കാര്യത്തിൽ അത് വരച്ചുകഴിഞ്ഞു നിങ്ങൾക്ക് സ്ട്രെസ് പൂജ്യമാണ് ഇത് കണക്കിലെടുക്കേണ്ടതാണ് നിങ്ങൾക്ക് rpഇതുപോലെ തീറ്റയുടെ ഒരു ഫംഗ്ഷൻ ആയി നൽകിയിട്ടുണ്ട് വ്യത്യസ്ത യീൽഡ് ക്രൈറ്റീരിയകൾക്കായി ഈ എക്സ്പ്രഷൻ മാറും ഞാൻ വോൺ മിസസ് ഉപയോഗിക്കുകയാണെങ്കിൽ എനിക്ക് rp1 ബൈ 4 പൈ ഇന്റു KI ബൈ സിഗ്മ ys ഹോൾ സ്ക്വയർ ഇന്റു 1 പ്ലസ് 3 ബൈ 2 സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് തീറ്റ ആണ് നമ്മുടെ സോളിഡ് മെക്കാനിക്സിൽ പോലും വ്യത്യസ്ത യീൽഡ് ക്രൈറ്റീരിയകൾ വ്യത്യസ്ത ഫലങ്ങൾ നൽകുന്നു ഫ്രാക്ചർ മെക്കാനിക്സിൽ നമ്മൾ വളരെ സങ്കീർണ്ണമായ സാഹചര്യങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത് അതിനാൽ നിങ്ങൾ ഒന്നിലധികം സൊല്യൂഷൻ സ്വീകരിക്കണം ഏതാണ് ഇതിന് അനുയോജ്യമെന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കണം സോളിഡ് മെക്കാനിക്സിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത് ചില വസ്തുക്കൾ ട്രെസ്ക യീൽഡ് ക്രൈറ്റീരിയ അനുസരിക്കുന്നു അതിനാൽ ആ മെറ്റീരിയലുകൾക്കായി ട്രെസ്ക യീൽഡ് ക്രൈറ്റീരിയ പ്രയോഗിക്കുക ചില വസ്തുക്കൾ വോൺ മിസസ് യീൽഡ് ക്രൈറ്റീരിയ അനുസരിക്കുന്നു ഇതൊരു സ്വീകാര്യമായ രീതിയാണ് നമ്മൾ ഇപ്പോൾ നോക്കാൻ ശ്രമിക്കുന്നത് പ്ലാസ്റ്റിക് സോണിന്റെ ആകൃതി പ്ലെയ്ൻ സ്ട്രെസ് പ്ലെയ്ൻ സ്ട്രെയിൻ എന്നിവയിൽ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നാണ് കൂടാതെ വോൺ മിസസ് യീൽഡ് ക്രൈറ്റീരിയ അല്ലെങ്കിൽ ട്രെസ്കയുടെ യീൽഡ് ക്രൈറ്റീരിയ എന്നിവയുമായി ബന്ധപ്പെട്ട് ഇത് എങ്ങിനെ മാറുന്നു ട്രെസ്കയെ സംബന്ധിച്ചിടത്തോളം ഇത് 1 ബൈ 2 പൈ KI സിഗ്മ ys ഹോൾ സ്ക്വയർ ഇന്റു കോസ് തീറ്റ ബൈ 2 1 പ്ലസ് സൈൻ തീറ്റ ബൈ 2 ഹോൾ സ്ക്വയർ ആണ് ഞാൻ ബ്രാക്കറ്റുകൾ വായിക്കുന്നില്ല സമവാക്യം അനുസരിച്ച് നിങ്ങൾ ബ്രാക്കറ്റുകൾ ഇടുന്നു നിങ്ങൾക്ക് ഈ എക്സ്പ്രഷൻ ഉള്ളതിനാൽ നിങ്ങൾക്ക് പോളാർ പ്ലോട്ട് ചെയ്യാൻ കഴിയും ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഒരു ശ്രമം നടത്തുക എന്നതാണ് നിങ്ങൾ നിങ്ങളുടെ മുറികളിലേക്ക് പോകുന്നു നിങ്ങൾക്ക് എക്സ്പ്രഷൻ ഉണ്ട് തീറ്റയുടെ കുറച്ച് മൂല്യങ്ങൾക്കായി നിങ്ങൾ ഇത് കണക്കാക്കുന്നു ഈ ആകാരം എങ്ങനെ കാണപ്പെടും അടുത്ത ക്ലാസ്സിൽ നമ്മൾ കാണും മോഡ് I സാഹചര്യത്തിനായി നമ്മൾ ഇത് വികസിപ്പിച്ചെടുത്തു മോഡ് II നും മോഡ് III നും സമാനമായ എക്സ്പ്രഷൻ നേടുക പ്ലാസ്റ്റിക് സോണിന്റെ ഏകദേശ ആകൃതിയിലുള്ള പോളാർ പ്ലോട്ടുകളുമായി വരാൻ ശ്രമിക്കുക അതിനാൽ ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് സർഫസ് ക്രാക്കിന്റെ എംപിരിക്കൽ റിലേഷനെത്തെക്കുറിച്ച് ന്യൂമാനും രാജുവും നൽകിയ അന്തിമ എക്സ്പ്രഷൻ നമ്മൾ പരിശോധിച്ചു ക്രാക്ക് ടിപ്പിന് സമീപം ട്രയാക്സിയാലിറ്റി എങ്ങനെ സംഭവിക്കുന്നുവെന്ന് നമ്മൾ പരിശോധിച്ചു ഫ്രാക്ചർ മെക്കാനിക്സിന്റെ പശ്ചാത്തലത്തിൽ പ്ലെയിൻ സ്ട്രെസ് പ്ലെയിൻ സ്ട്രെയിൻ എന്നീ പദങ്ങൾ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു ഫ്രാക്ചർ മെക്കാനിക്സിന്റെ കാര്യത്തിലെ അയഞ്ഞ നിർവചനവും അപ്പ്ളൈഡ് മെക്കാനിക്സ് നിർവചനവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് വിവിധ സാഹചര്യങ്ങളിൽ സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടർ എങ്ങിനെ കണ്ടെത്താം എന്ന് നമ്മൾ പരിശോധിച്ചു സർഫസ് ക്രാക്കിന്റെ സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടർ തിക്നെസ്സ് ക്രാക്കിന്റെ മൂല്യവുമായി താരതമ്യപ്പെടുത്തുന്നുണ്ടെങ്കിലും ഞാൻ ഇത് ചൂണ്ടിക്കാണിച്ചു ഫ്രാക്ചർ ഇന്സ്റ്റബിലിറ്റി കാഴ്ചപ്പാടിൽ നിന്നുള്ള ട്രയാക്സിയാലിറ്റി കാരണം നിങ്ങൾ സർഫസ് ക്രാക്കിന് പ്ലെയിൻ സ്ട്രെയിൻ ഫ്രാക്ചർ ടഫ്നെസ്സ് ഉപയോഗിക്കേണ്ടിവരും അതിനാൽ സർഫസ് ക്രാക്ക് എല്ലായ്പ്പോഴും അപകടകരമാണെന്ന് നിങ്ങളുടെ മനസിൽ സൂക്ഷിക്കണം ക്രാക്ക് ടിപ്പിന് മുമ്പായി പ്ലാസ്റ്റിക് സോൺ നിർണ്ണയിക്കുന്നതിനുള്ള പ്രചോദനത്തിലേക്ക് നമ്മൾ നീങ്ങി ഫ്രാക്ചർ മെക്കാനിക്സ് വലിയ ക്ലാസ് മെറ്റീരിയലിലേക്ക് വ്യാപിപ്പിക്കുക എന്നതാണ് അവശ്യ ആശയം ആളുകൾ ചെയ്ത ലളിതമായ പരിഷ്ക്കരണങ്ങൾ കണ്ടു ആ പരിധിവരെ നമ്മൾ പോയി വളരെ ലളിതമായ ഒരു മോഡലിലേക്ക് നോക്കി ക്രാക്ക് ആക്സിസിൽ പ്ലാസ്റ്റിക് സോണിന്റെ വിപുലീകരണം കണ്ടെത്താൻ തീറ്റയുടെ ഒരു ഫംഗ്ഷനായി നമ്മൾ റിലേഷൻ നേടിയിട്ടുണ്ട് ഇത് പ്ലോട്ട് ചെയ്ത് അടുത്ത ക്ലാസിലേക്ക് വരാൻ ഞാൻ ആവശ്യപ്പെട്ടു